മെക്കാനിക്കൽ ഫോഴ്സസ് ഡി എൻ എ ഡാമേജ് ഹലോ ഇന്നത്തെ ക്ലാസ് ആയ പ്രവർത്തന ജീവശാസ്ത്രത്തിൻ്റെ മെക്കാനോബയോളജിയുടെ ആമുഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ പ്രഭാഷണങ്ങളിൽ നമ്മൾ മർമ്മത്തെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെ നിർണ്ണയിക്കുന്നതെന്താണെന്നും എങ്ങനെയാണ് ഈ ശക്തികൾ ന്യൂക്ലിയസിനുള്ളിലേക്ക് എത്തിച്ചേരുന്നതെന്നും ചർച്ച ചെയ്തിരുന്നു ലാമിനുകളെക്കുറിച്ച് പ്രത്യേകമായി ചർച്ച ചെയ്തിരുന്നു എ ടൈപ്പ് ലാമിനുകളും ബി ടൈപ്പ് ലാമിനുകളും ഉണ്ട് എ ടു ബി അനുപാതം ടിഷ്യു സ്പെസിഫിക് അല്ലെങ്കിൽ ടിഷ്യു സ്റ്റിഫ്നസ്സ് സ്പെസിഫിക് tissue stiffness specific ആണെന്ന് നിരീക്ഷിക്കപ്പെട്ടു കടുപ്പമുള്ള കലകൾക്ക് എ ടു ബി അനുപാതം ഉയർന്നതും മൃദുകലകൾക്ക് എ ടു ബി അനുപാതം കുറവുമാണ് സെൽ മോട്ടിലിറ്റിയിലും കൺഫൈൻഡ് മൈഗ്രേഷനിലും എ ടു ബി അനുപാതത്തിൻ്റെ പ്രാധാന്യമെന്താണെന്നും ഞാൻ ചർച്ചചെയ്തു ഇതിൽ എ ടു ബി അനുപാതം ഞങ്ങൾ നിരീക്ഷിച്ചു എ ഒരു ഡാഷ്പോട്ടായും ബി സ്പ്രിംഗായും പ്രവർത്തിക്കുന്നു ലാമിൻ എ അതായത് ലാമിൻ എസി lamin AC സ്പ്ലൈസ് വേരിയന്റുകളാണ് ഈ പ്രോട്ടീനുകൾ മൃദു പ്രതലത്തിൽ ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നു ഈ ഫോസ്ഫോറിലേഷൻ പ്രോട്ടീൻ്റെ അപചയത്തിലേക്ക് നയിച്ച് ന്യൂക്ലിയസ് മൃദുവാക്കുകയും ചെയ്യുന്നു എന്നാൽ ക്യാൻസർ കോശങ്ങൾക്ക് മറ്റു കോശങ്ങളെ ആക്രമിക്കണമെങ്കിൽ മാട്രിക്സിലെ ചെറിയ സുഷിരങ്ങളിലൂടെ കടന്നുപോകാൻ കഴിയണം പക്ഷേ കോശങ്ങൾക്ക് രൂപഭേദം വരുത്താനും കഴിയില്ല കോശങ്ങൾക്ക് ന്യൂക്ലിയർ ഡീഫോർമേഷൻ പരിധി ഉണ്ട് അത് അൺഡിഫോർമഡ് വലുപ്പത്തിൻ്റെ 10 ശതമാനമാണ് അപ്പോൾ കാൻസർ കോശങ്ങൾ എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുമെന്നതാണ് ചോദ്യം ഈ കാൻസർ കോശങ്ങളിൽ ലാമിൻ എസി സൺ പ്രോട്ടീനുകൾ കാഷ് പ്രോട്ടീനുകൾ നെസ്പ്രിനുകൾ lamin AC SUN proteins KASH proteins Nesprins തുടങ്ങിയ ലിങ്ക് പ്രോട്ടീനുകളുടെ എക്സ്പ്രെഷനെ ഡൌൺ റെഗുലേറ്റ് ചെയ്യുന്നു ഈ പേപ്പറും നമ്മൾ ചർച്ചചെയ്തു പക്ഷേ ന്യൂക്ലിയസ് വളരെ മൃദുവായാൽ കൺഫൈൻഡ് മൈഗ്രേഷൻ അപ്പോപ്റ്റോസിസിലേക്ക് നയിച്ചേക്കാം വ്യത്യസ്ത ക്യാൻസറുകളുടെ മ്യൂട്ടേഷൻ നിരക്ക് താരതമ്യം ചെയ്തപ്പോൾ അസ്ഥി പോലുള്ള കഠിനകലകളിൽ ഉണ്ടാകുന്ന ക്യാൻസറുകൾക്ക് ഉയർന്ന മ്യൂട്ടേഷൻ നിരക്ക് ഉണ്ടെന്ന് കണ്ടെത്തി നമുക്ക് ഈ പസിലിൻ്റെ ഭാഗങ്ങൾ എങ്ങനെ ഒരുമിച്ച് ചേർക്കാനാകും ഇവിടെ കാഠിന്യത്തോടൊപ്പം മ്യൂട്ടേഷൻ നിരക്കും വർദ്ധിക്കുന്നതായി കാണാം ലാമിൻ എസി lamin AC യും ന്യൂക്ലിയർ കാഠിന്യവും പരസ്പരം പോസിറ്റീവിലി കോറിലേറ്റഡ് ആണ് എന്നാൽ ന്യൂക്ലിയർ കാഠിന്യവും മൈഗ്രേഷൻ കാര്യക്ഷമതയും നെഗറ്റീവിലി കോറിലേറ്റഡ് ആണ് ന്യൂക്ലിയസ് വളരെ കടുപ്പമുള്ളതാണെങ്കിൽ മൈഗ്രേഷൻ്റെ കാര്യക്ഷമത കുറവാണ് ന്യൂക്ലിയർ കാഠിന്യം വർദ്ധിക്കുമ്പോൾ കൺഫൈൻമെന്റിൻ്റെ അളവും കൂടുന്നു ലാമിൻ എസി lamin AC അളവ് കുറവാണെങ്കിൽ ഉയർന്ന അളവിൽ അപ്പോപ്റ്റോസിസ് ഉണ്ടാകുന്നു അതിനാൽ ഈ ഒരു ബന്ധത്തിനു പകരം കൺഫൈൻഡ് മൈഗ്രേഷൻ ന്യൂക്ലിയർ കേടുപാടുകൾക്കും ഡിഎൻഎ കേടുപാടുകൾക്കും ഇടം കൊടുക്കുന്നുണ്ടോ ഇത് ഡിഎൻഎ റിപ്പയർ ചെയ്യുന്നതിലെ വൈകല്യങ്ങളിലേക്ക് നയിക്കുന്നുണ്ടോ ഇതാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കോർണലിലെ ജാൻ ലാമർഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യൂറിയിലെ മാത്യൂ പിയൽ എന്നിവരുടെ രണ്ടു ഗ്രൂപ്പുകളുണ്ട് കൺഫൈൻഡ് മൈഗ്രേഷൻ ആകുമ്പോൾ ധാരാളം ന്യൂക്ലിയർ വിള്ളലുകളുണ്ടാകുമെന്ന് അവർ കാണിച്ചു ഇത് എങ്ങനെ തെളിയിക്കും അതുകൊണ്ട് അവർ ഈ പാറ്റേണുകൾ സൃഷ്ടിച്ചു ഇത് മൈക്രോ ഫാബ്രിക്കേറ്റഡ് സ്റ്റാമ്പുകളാണ് ഈ ദിശയിൽ നിങ്ങൾക്ക് ഒരു ഇ ജിഎഫ് ഗ്രേഡിയൻ്റ ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക നിങ്ങൾക്ക് ഈ മൈക്രോ ഫാബ്രിക്കേറ്റഡ് സബ്സ്ക്രിപ്റ്റുകൾ ഉണ്ട് കൂടാതെ കോശവും ഉണ്ട് കോശത്തെ വ്യത്യസ്ത രീതിയിൽ വരയ്ക്കാൻ എന്നെ അനുവദിക്കുക അത് കീമോകൈനിൻ്റെ ദിശയിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നു ഇ ജിഎഫ് ഗ്രേഡിയൻറ് കൂടുതലായതിനാൽ ഈ കോശങ്ങൾ മൊത്തത്തിൽ ആ ദിശയിലേക്ക് പോകാൻ ശ്രമിക്കും അവർ ഈ കോശങ്ങളെ ജിഎഫ്പി എൻ എൽ എസ് ഉപയോഗിച്ച് ട്രാൻസ്ഫെക്ട് ചെയ്തു എൻ എൽ എസ് ഒരു ന്യൂക്ലിയർ ലോക്കലൈസേഷൻ സിഗ്നലാണ് ഇത് ഞങ്ങൾ ന്യൂക്ലിയസിൽ അവതരിപ്പിച്ചതാകണം പക്ഷേ അവർ കണ്ടെത്തിയത് എന്താണെന്നുവെച്ചാൽ മൈഗ്രേഷൻ പ്രക്രിയയിൽ ഇതുപോലൊരു സാഹചര്യം ഉണ്ടാകും ഇവിടെ നിങ്ങൾക്ക് ജിഎഫ്പി സിഗ്നൽ സൈറ്റോപ്ലാസത്തിൽ കാണാം ഇത് സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്നു അതിനാൽ ന്യൂക്ലിയസിലും സൈറ്റോപ്ലാസത്തിലുമുള്ള എൻ എൽ എസ് ജി എഫ് പി ഫ്ലൂറസെൻസ് സമയത്തിൻ്റെ പ്രവർത്തനമായി ട്രാക്കു ചെയ്തു ഇത് ന്യൂക്ലിയർ സിഗ്നൽ ആണെന്ന് നമുക്ക് പറയാം ന്യൂക്ലിയസ് ഒരിക്കലും പൊട്ടിയില്ലെങ്കിൽ ഈ സിഗ്നൽ സ്ഥിരമായിരിക്കും എന്നാൽ ഓരോ തവണയും സിഗ്നൽ കുറയുന്നതായി അവർ കണ്ടെത്തി പിന്നീട് ഈ മൂല്യത്തിലേക്ക് മടങ്ങുന്നു വീണ്ടും കുറയുന്നു വീണ്ടും മൂല്യത്തിലേക്ക് തിരിച്ചുവരുന്നു എല്ലായ്പ്പോഴും ന്യൂക്ലിയർ സിഗ്നൽ കുറയുമ്പോൾ സൈറ്റോപ്ലാസം സിഗ്നലിൽ സമാനമായ വർദ്ധനവ് അവർ കണ്ടെത്തി അത് വീണ്ടും 0 ആയി കുറഞ്ഞപ്പോൾ സൈറ്റോപ്ലാസം സിഗ്നലിൽ വീണ്ടും വർദ്ധനവ് ഉണ്ടായി ഇത് ന്യൂക്ലിയർ സിഗ്നലാണ് ഇത് സൈറ്റോപ്ലാസം സിഗ്നലും ഓരോ തവണയും ന്യൂക്ലിയസിൽ വിള്ളൽ ഉണ്ടാകുമ്പോൾ ജിഎഫ്പി എൻഎൽഎസ് ലയന സ്വഭാവമുള്ളതാകയാൽ ഇത് സൈറ്റോപ്ലാസത്തിലേക്ക് ഒലിച്ചിറങ്ങുന്നു ഇത് ഒരു ന്യൂക്ലിയർ വിള്ളൽ സംഭവമാണ് കൺഫൈൻഡ് മൈഗ്രേഷൻ രണ്ട് ന്യൂക്ലിയർ റപ്ച്ചർ സംഭവങ്ങൾക്ക് കാരണമാകുമെന്ന് ഇത് തെളിയിച്ചു ഈ പ്രത്യേക ജ്യാമിതി മൈക്രോ ഫാബ്രിക്കേറ്റ് ചെയ്തതാണെങ്കിലും അവ ഒന്നിലധികം കൊളാജൻ കോശങ്ങളിൽ ചെയ്തിട്ടുണ്ട് സുഷിരത്തിൻ്റെ ശരാശരി വലുപ്പവും ന്യൂക്ലിയർ വിള്ളൽ കാണിക്കുന്ന കോശങ്ങളുടെ ശതമാനവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടെന്ന് അവർ കണ്ടെത്തി സുഷിരത്തിൻ്റെ വലിപ്പം വർദ്ധിക്കുമ്പോൾ ന്യൂക്ലിയർ വിള്ളൽ പ്രകടമാക്കുന്ന കോശങ്ങളുടെ എണ്ണം വളരെ കുറയുന്നു പക്ഷേ സുഷിരത്തിൻ്റെ വലിപ്പം കുറയ്ക്കുകയാണെങ്കിൽ കൂടുതൽ കൺഫൈൻമെൻറ് ഉണ്ടായി കൂടുതൽ ന്യൂക്ലിയർ വിള്ളൽ ഉണ്ടാകുന്നു എന്നിരുന്നാലും ഈ വിള്ളൽ കൂടുതൽ സമയം തുടരില്ല എൻഡോസോമൽ സോർട്ടിംഗ് കോംപ്ലക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ന്യൂക്ലിയാർ എൻവലപ്പിൻ്റെ ഇന്റഗ്രിറ്റി വീണ്ടെടുക്കുന്നു നിങ്ങൾക്ക് എസ്കർട് III എന്ന് വിളിക്കുന്ന ഈ ഏജന്റുകളുടെ കുടുംബമുണ്ട് ന്യൂക്ലിയർ ട്രാൻസ്പോർട്ടിന് ഈ ഏജന്റുകൾ ആവശ്യമാണ് ന്യൂക്ലിയർ മെംബറേൻ വീണ്ടും റീസീലു ചെയ്യുന്നത് എസ്കർട് വഴിയാണ് സെൽ മൈഗ്രേഷൻ ന്യൂക്ലിയർ എൻവലപ്പിൽ വലിയതോതിൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാണ് ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ കാണിക്കുന്നത് ഇത് ശരിയാണെങ്കിൽ കോശത്തിൻ്റെ നിലനിൽപ്പിന് കാര്യക്ഷമമായ ന്യൂക്ലിയർ എൻവലപ്പ് റിപ്പയർ ആവശ്യമാണ് ഇത് ആദ്യ ഭാഗമാണ് ന്യൂക്ലിയസിന് ക്ഷതമുണ്ടാകാമെന്നും കോശത്തിന് അതിജീവിക്കാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ ഇത് കോശത്തിൻ്റെ നാശത്തിനു കാരണമാകുമെന്നാണ് ഇത് കാണിക്കുന്നത് ഇതിൻ്റെ അടുത്ത ഭാഗത്തെ ചോദ്യമിതാണ് ഈ ന്യൂക്ലിയർ വിള്ളൽ സംഭവങ്ങൾക്ക് ഡിഎൻഎ റിപ്പയറിൽ മാറ്റം വരുത്താൻ കഴിയുമോ അത് ഡിഎൻഎ റിപ്പയറിനെ പ്രതികൂലമായി ബാധിക്കുമോ ഈ ചോദ്യത്തിന് യുപിന്നിലെ ഡെന്നിസ് ഡിഷർ ഉത്തരം നൽകും അദ്ദേഹം വീണ്ടും ഈ സുഷിര പരീക്ഷണം നടത്തി നിങ്ങൾക്ക് ഈ 3 മൈക്രോൺ അല്ലെങ്കിൽ 8 മൈക്രോൺ സുഷിരങ്ങൾ ഉണ്ട് ഇവിടെ നിങ്ങൾ കോശത്തെ രൂപാന്തരം ചെയ്യുന്നു കോശങ്ങൾ ഈ സുഷിരങ്ങളിലൂടെ കടന്നുപോകുന്നു അതിനാൽ കിട്ടുന്ന ന്യൂക്ലിയസ് ഇതാണ് അവർ ഇതിനെ പല പോയിന്റുകളിൽ ട്രാക്ക് ചെയ്തു ഇതാണ് സുഷിരം ഇത് സുഷിരത്തിന് പുറത്തുള്ള ഭാഗം ഇത് സുഷിരത്തിൻ്റെ അകവും ഇത് അടിഭാഗവും ആണ് അവർ ഒരു കൂട്ടം പ്രോട്ടീനുകൾ വെച്ച് കോശങ്ങളെ ട്രാൻസ്ഫെക്ട് ചെയ്തു അവർക്ക് ജിഎഫ്പി എച്ച് 2 ബി പ്രോട്ടീൻ ഉണ്ട് ഇത് ക്രോമാറ്റിനുമായി ബൈൻഡ് ചെയ്യുന്നു ഈ പ്രോട്ടീൻ ഉപയോഗിച്ച് കോശങ്ങളെ ട്രാൻസ്ഫെക്ട് ചെയ്തു പ്രധാനപെട്ട മറ്റ് ഡിഎൻഎ റിപ്പയർ പ്രോട്ടീനുകളാണ് കെ യു 80 കെ യു 70 53 ബിപി 1 Ku80 Ku70 53BP1 തുടങ്ങിയവ എന്താണ് ഇവിടെ കണ്ടെത്തിയത് ഞാൻ ന്യൂക്ലിയസ് വരയ്ക്കുകയാണെങ്കിൽ ഇത് ന്യൂക്ലിയസാണ് പുറത്തും അകത്തും താഴെയുമുള്ള ഈ പ്രോട്ടീനുകളുടെ തീവ്രത അവർ ട്രാക്കുചെയ്യ്തു ഹിസ്റ്റോൺ 2 ബി പ്രോട്ടീനുകൾക്ക് എന്താണ് കണ്ടെത്തിയത് മൂന്ന് മൈക്രോൺ സുഷിരത്തിൽ അവർക്ക് ഡിഎൻഎയും പ്രോട്ടീനും തമ്മിലുള്ള അനുപാതം ട്രാക്കുചെയ്യാനാകും ഡിഎൻഎ അകത്തെയും പുറത്തെയും തീവ്രത തമ്മിലുള്ള അനുപാതം നൽകുന്നു അങ്ങനെ നിങ്ങൾക്ക് അകത്തെയും പുറത്തെയും അനുപാതം കണക്കാക്കാം ഇതാണ് ഡിഎൻഎയുടെ പ്രൊഫൈലെങ്കിൽ എച്ച് 2 ബി പ്രോട്ടീനും 3 മൈക്രോൺ സുഷിരത്തിൽ അതേ പ്രൊഫൈൽ നൽകുന്നു എന്നാൽ നിങ്ങൾ കെ യു 80 കെ യു 70 53 ബിപി 1 Ku80 Ku70 53BP1 എന്നീ പ്രോട്ടീനുകളെ ട്രാക്ക് ചെയ്യുമ്പോൾ തീവ്രത വളരെ കുറവാണ് ക്രോമാറ്റിനിൽ നിന്ന് അകലെ പോകുംതോറും മൊബൈൽ പ്രോട്ടീനുകളുടെ ഒരു വേർതിരിവ് ഉണ്ട് അതിനാൽ അകത്തും പുറത്തും താഴെയുമുള്ള തീവ്രതയുടെ അടിസ്ഥാനത്തിൽ മൊബൈൽ പ്രോട്ടീൻ ഫ്രാക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ പുറത്ത് ഉം അകത്ത് ഉം താഴെ ഉം ആണ് അവർ കണ്ടെത്തിയത് ഇവിടെ ന്യൂക്ലിയസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ധാരാളം തെറ്റിദ്ധാരണ ഉണ്ടാകും നിങ്ങൾ ഡിഎൻഎയിൽ ഇതേ പോലെ ചെയ്യുകയാണെങ്കിൽ ഡിഎൻഎ വിപരീതദിശ കാണിക്കുന്നു അതായത് സുഷിരത്തിനുള്ളിൽ പരമാവധി തീവ്രത കാണിക്കുന്നു മുമ്പത്തെ പഠനം പോലെ ഓരോ തവണയും ന്യൂക്ലിയർ വിള്ളൽ ഉണ്ടാകുമ്പോൾ സൈറ്റോപ്ലാസത്തിലെ കോൺസെൻട്രേഷൻ ട്രാക്കുചെയ്യുകയാണെങ്കിൽ താഴെയുള്ള സൈറ്റോപ്ലാസത്തിൽ ചില സിഗ്നലുകൾ കാണുന്നു അതിനാൽ മറ്റ് പഠനങ്ങളിൽ പ്രകടമായ ന്യൂക്ലിയർ വിള്ളലാണ് ഇത് അതുകൊണ്ട് ഡിഎൻഎയിൽ നിന്ന് അകലം കൂടുന്തോറും മൊബൈൽ പ്രോട്ടീനുകളുടെ ഒരു തരംതിരിവ് ഉണ്ടാകുന്നു ഈ വേർതിരിക്കൽ സംഭവിക്കുന്നത് സുഷിരത്തിൻ്റെ പ്രവേശനഭാഗത്തും പുറത്തുകടക്കൽ ഭാഗത്തുമാണ് ശേഷം അവർ മൈക്രോപിപറ്റ് അസ്പിരേഷൻ ചെയ്തു വീണ്ടും അവർ ഡിഎൻഎ യെ 53 ബിപി 1 എന്ന പ്രോട്ടീൻ ഉപയോഗിച്ച് ലേബൽ ചെയ്തു ന്യൂക്ലിയസിൽ നിന്ന് മൈക്രോപിപ്പറ്റ് ഉപയോഗിച്ച് ഒരു മിനിറ്റ് ആസ്പിറേറ്റ് ചെയ്തു പക്ഷേ പിന്നീട് അവർ ഒരു മണിക്കൂർ സമ്മർദ്ദം സ്ഥിരമായി നിലനിർത്തിയപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം കണ്ടെത്തിയത് ന്യൂക്ലിയസിൻ്റെ ഇത്തരത്തിലുള്ള ഒരു രൂപരേഖ ആണ് ഡിഎൻഎ യുടെ ഭൂരിഭാഗവും അകത്തായിരുന്നു പക്ഷേ 53 ബിപി 1 ൻ്റെ ഭൂരിഭാഗവും പുറത്തായിരുന്നു അതുപോലെ ഡിഎൻഎ മൈക്രോപിപ്പറ്റിനുള്ളിലായിരുന്നു പക്ഷേ 53 ബിപി 1 പുറത്തായിരുന്നു അതിനാൽ ഇത് വീണ്ടും തെളിയിക്കുന്നത് ഒരു വേർതിരിവ് ഉണ്ടെന്നാണ് വ്യത്യസ്ത വ്യാസമുള്ള പിപ്പറ്റുകൾ ഉപയോഗിച്ചാണ് അവർ ഇത് ചെയ്തത് എക്സ് അച്ചുതണ്ടിൽ പിപ്പറ്റ് വ്യാസമാണ് എടുത്തത് തുടർന്ന് അവർ പുറത്തും അകത്തുമുള്ള അനുപാതം ട്രാക്കുചെയ്തു അതായത് ഐയും ഒയും തമ്മിലുള്ള അനുപാതം പിപ്പറ്റ് വ്യാസം വർധിക്കുന്തോറും ഐയും ഒയും തമ്മിലുള്ള അനുപാതം ratio വർദ്ധിക്കുന്നു ഇതാണ് ഡിഎൻഎ തീവ്രത അനുപാതം ഇത് മറ്റുള്ള എല്ലാ മൊബൈൽ പ്രോട്ടീനുകളും ആണ് അവ തികച്ചും വിപരീത ഫലങ്ങൾ നൽകുന്നു മൊബൈൽ പ്രോട്ടീനുകൾ പരിഗണിക്കുമ്പോൾ അവർക്ക് റിപ്പയർ പ്രോട്ടീനുകൾ റിപ്പയർ ഘടകങ്ങൾ ട്രാൻസ്ക്രിപ്ഷൻ അനുബന്ധ പ്രോട്ടീനുകൾ ട്രാൻസ്ക്രിപ്ഷൻ ഘടകങ്ങൾ എപിജനെറ്റിക് ഘടകങ്ങൾ കൂടാതെ ന്യൂക്ലിയസ് എന്നിവ ഉണ്ടായിരുന്നു ഇതിനെല്ലാം വേർതിരിക്കൽ ഉണ്ടെന്നും ഈ വേർതിരിക്കൽ പിപ്പറ്റ് വ്യാസത്തോട് സംവേദനക്ഷമമാണെന്നും അവർ കണ്ടെത്തി നിങ്ങൾ ഈ സോണിൽ പിപ്പറ്റ് വ്യാസം കുറയ്ക്കുമ്പോൾ അകത്തേയും പുറത്തെയും മൊബൈൽ തീവ്രതയും ഗണ്യമായി കുറയുന്നു അതിനാൽ ഇത് ഐ ബൈ ഒ അനുപാതമാണ് അതുകൊണ്ട് ഈ വേർതിരിക്കൽ ദീർഘകാല ഡിഎൻഎ കേടുപാടുകൾക്ക് കാരണമാകുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ വേണ്ടി അവർ ഒരു പടി കൂടി മുന്നോട്ട് പോയി അവർ എന്താണ് ചെയ്തതെന്ന് ട്രാക്കു ചെയ്തു അവർ യു 20 എസ് എടുത്തു ഇവ ഓസ്റ്റിയോസാർകോമ കോശങ്ങളാണ് ഇവയെ 3 മൈക്രോൺ സുഷിരങ്ങളിലൂടെ കടത്തിവിട്ടു തുടർന്ന് ഡിഎൻഎ കേടുപാടുകളുടെ വ്യാപ്തി എത്ര മാത്രമാണെന്ന് കണ്ടെത്തി അവർ 3 മൈക്രോൺ സുഷിരങ്ങളിൽ കണ്ടെത്തിയ ഗാമ എച്ച് 2 എ എക്സ് ഫോസൈകളുടെ എണ്ണത്തിൽ നിന്ന് ഡിഎൻഎയുടെ നാശത്തിൻ്റെ വ്യാപ്തി ട്രാക്കുചെയ്തു അവർക്ക് ഗാമാ എച്ച് 2 എ എക്സ് ഫോസൈകളുടെ പൂർണ്ണമായ അനുപാതമുണ്ടായിരുന്നു മുകളിലും താഴെയുമുള്ള അനുപാതമാണ് കണ്ടെത്തിയത് അതിനാൽ അവർ താഴേയ്ക്കും മുകളിലേക്കും ട്രാക്കുചെയ്തു കോശം കടന്നുപോകുന്ന സുഷിരമാണിത് ഇത് നിങ്ങളുടെ ടോപ്പ് ആണ് ഇത് നിങ്ങളുടെ അടിഭാഗമാണ് തുടർന്ന് മുകളിലുള്ള കോശങ്ങളിലെ ഗാമാ എച്ച് 2 എ എക്സ് ഫോസൈകളുടെ എണ്ണവും ചുവടെയുള്ള കോശങ്ങളിലെ ഗാമാ എച്ച് 2 എ എക്സ് ഫോസൈകളുടെ എണ്ണവും അവർ എടുക്കുന്നു എട്ട് മൈക്രോൺ സുഷിരങ്ങളിൽ ഈ അനുപാതം 1 ആയിരിക്കണം കാരണം എട്ട് മൈക്രോൺ സുഷിരങ്ങളിൽ ന്യൂക്ലിയസ് ഞെരുക്കണ്ട ആവശ്യമില്ല എന്നാൽ 3 മൈക്രോൺ സുഷിരങ്ങളിൽ ന്യൂക്ലിയസിൻ്റെ ഞെരുക്കൽ 60 ശതമാനം കൂടുതലാണ് അതിനാൽ ഇത് പൂർണ്ണമായും മൈഗ്രേഷൻ മൂലമുള്ള ഡിഎൻഎ കേടുപാടാണ് മീസെൻകൈമൽ മൂലകോശങ്ങൾ പോലുള്ള മറ്റ് കോശങ്ങളിലും അവർ ഇത് കണ്ടെത്തി ഡിഎൻഎ റിപ്പയർ മനസ്സിലാക്കാനായി അവർ ഡിഎൻഎ റിപ്പയർ ഘടകങ്ങൾ ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തി തുടർന്ന് ഡിഎൻഎ കേടുപാടുകളുടെ തോത് കൂടുന്നതിനനുസരിച്ച് റിപ്പയർ ഘടകങ്ങൾ മിസ്ലോക്കലൈസ് ചെയ്യുന്നുവെന്ന് അവർ കാണിച്ചു മിസ്ലോക്കലൈസേഷൻ വർദ്ധിക്കുമ്പോൾ ഫോസൈകളുടെ എണ്ണം വർദ്ധിക്കുമെന്ന് കണ്ടെത്തി ഈ മാറ്റങ്ങൾ ക്രോമസോം കോപ്പി നമ്പറിലെ മാറ്റങ്ങളിലേക്ക് നയിക്കുകയും ഒടുവിൽ ജീനോമിക് വൈവിധ്യത്തിന് കാരണമാകുകയും ചെയ്യുന്നു ന്യൂക്ലിയസിന് ഉണ്ടാകുന്ന ഫിസിക്കൽ ഡാമേജുകൾ വൈവിധ്യത്തിന് കാരണമാകുമെന്ന് ഇത് വ്യക്തമായി തെളിയിച്ചു അതിനാൽ ഇത് മൈഗ്രേഷൻ മൂലം ഉണ്ടാകുന്ന വൈവിധ്യത്തിന് ഒരു ഉദാഹരണമാണ് നിങ്ങൾക്കറിയാം മിക്ക കാൻസർ കോശങ്ങളിലും ഒന്നിലധികം ഉപപോപ്പുലേഷനുകൾ ഉണ്ട് മാത്രമല്ല ഈ കോശങ്ങൾ സ്വതസിദ്ധമായി വൈവിധ്യമാർന്നതാണ് മർദ്ദം പോലുള്ള ഭൌതിക ഘടകങ്ങൾക്ക് കംപ്രസ്സീവ് സ്ട്രെസ് ഉണ്ടാക്കാൻ സാധിക്കും ഇത് ന്യൂക്ലിയർ ഡാമേജുകളിലൂടെയുള്ള വൈവിധ്യത്തിനു കാരണമാകുന്നു അതിനാൽ ഇത് ന്യൂക്ലിയസിലാണെന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു ഇതിൻ്റെ ഭൌതിക സവിശേഷതകൾ മൈഗ്രേഷൻ കാര്യക്ഷമതയെ നിർണ്ണയിക്കുന്നു മാത്രമല്ല അവ പരോക്ഷമായി വൈവിധ്യത്തിലും ഉൾപ്പെട്ടിട്ടുണ്ട് കോശങ്ങളോ ന്യൂക്ലിയസ്സുകളോ കടുപ്പമുള്ളതാണെങ്കിൽ ഈ പോപ്പുലേഷൻ കൂടുതലും ഒരേപോലെ ഉള്ളതായിരിക്കും മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഹോമോജനിറ്റി കൂടുതലായിരിക്കും ഹോമോജനിറ്റി കൂടുമ്പോൾ ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾ കുറയും ഇതോടുകൂടി ഞാൻ ഇവിടെ നിർത്തുന്നു റീഡിംഗ് അസൈൻമെന്റായി ഇനിപ്പറയുന്ന പ്രബന്ധങ്ങൾ വായിക്കാൻ ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്നു ഡിനൈസ് എറ്റ് ആൾ സയൻസ് 2016 ഇരിയന്റോ എറ്റ് ആൾ കറന്റ് ബയോളജി 2016